ഡെവലപ്പിംഗ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഐഐടി കാൺപൂരിൽ നിന്നുള്ളതാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള രവി ചന്ദ്രൻ ആണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത് എൻ മൂക്ക് കോഴ്സിന്റെ രൂപത്തിലാണ് ഇത് അവസാന ആഴ്ച ആഴ്ച നമ്പർ 8 അവസാന മൊഡ്യൂളും അവസാന പ്രഭാഷണവുമാണ് അതിനാൽ ഞാൻ അവസാന പ്രഭാഷണം പറയുന്ന നിമിഷം ഇന്നലെ നമ്മൾ ഇത് ആരംഭിച്ചതുപോലെ 8 ആഴ്ചകൾ വളരെ വേഗത്തിൽ കടന്നുപോയി തുടർന്ന് ഏകദേശം 48 പ്രഭാഷണങ്ങൾ വളരെ വിജയകരമായും ഫലപ്രദമായും അർത്ഥവത്തായും കടന്നുപോയി എന്ന വസ്തുത മനസ്സിലാക്കുമ്പോൾ എനിക്ക് അൽപ്പം വൈകാരികവും അമിതാവേശവും തോന്നുന്നു നമ്മൾ അവസാന പ്രഭാഷണത്തിലാണ് അവസാന പ്രഭാഷണത്തെക്കുറിച്ച് എനിക്ക് എന്ത് ചിന്തകളുണ്ട് നമ്മൾ ഈ കോഴ്സ് അവസാനിപ്പിക്കാൻ പോകുന്നു മനുഷ്യബന്ധങ്ങളുടെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ നിങ്ങളുടെ ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചില പൊതുവായ നിർദ്ദേശങ്ങൾ നൽകുകയല്ലാതെ മറ്റെന്താണ് ഞാൻ ചിന്തിച്ചത് പ്രത്യേകിച്ചും വിശ്വാസവും സമഗ്രതയും വളർത്തിയെടുക്കുന്നതിൽ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ വായന കലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫലപ്രദമായ വായനയ്ക്കുള്ള ചില സാങ്കേതികവിദ്യകൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഏഴാമത്തെ മൊഡ്യൂളായ നമ്മുടെ മുൻ പ്രഭാഷണത്തിലേക്ക് മടങ്ങട്ടെ പ്രിവ്യൂവും സാമ്പിളും ഉപയോഗിച്ച് ആരംഭിക്കുന്ന ഫലപ്രദമായ വായന നടത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സാങ്കേതികവിദ്യകളിൽ ഞാൻ പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കാത്തത് ഇല്ലാതാക്കാനും നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് തിരഞ്ഞെടുക്കാനും പ്രിവ്യൂ നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ നീണ്ട മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ പോലും വായിച്ചെടുക്കാൻ കഴിയും അതിനാൽ ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾ മാത്രം വായിക്കുകയും ശേഷിക്കുന്ന ഖണ്ഡികകളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ വാക്യങ്ങൾ മാത്രം വായിക്കുകയും അവസാനത്തെ രണ്ട് ഖണ്ഡികകൾ മാത്രം വായിക്കുകയും ചെയ്യുന്ന രീതി പിന്തുടരുക എന്നാൽ ബാക്ക് ഫ്ലാപ്പ് പോലുള്ള മറ്റ് പ്രിവ്യൂ സാധ്യതകളിൽ നിന്നും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിമർശനാത്മക അവലോകനങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങളിൽ നിന്നും നിങ്ങൾ ചില പൊതുവായ വിവരങ്ങൾ ശേഖരിക്കുന്നു പിന്നെ ഞാൻ സ്കിമ്മിംഗിനെക്കുറിച്ച് സംസാരിച്ചു സ്കിമ്മിംഗ് എന്നത് കീവേഡുകളിലൂടെ വളരെ വേഗത്തിൽ നോക്കുകയും അവ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സാധാരണയായി കീവേഡുകൾ ടോപ്പിക്കൽ വാക്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നു ചിലപ്പോൾ അവ പ്രധാന വാക്കുകളാണ് നിങ്ങൾ അത് നീക്കം ചെയ്താൽ മുഴുവൻ വാക്യവും വീഴും അത് ഒരു അർത്ഥവും നൽകില്ല പത്രങ്ങൾ മാസികകൾ യാത്രാ ലഘുപത്രികകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ലഘുവായ വായനാ സാമഗ്രികൾ അല്ലെങ്കിൽ നിങ്ങൾ ലഘുവായി വായിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പുസ്തകവും വായിക്കാനും ആ സ്കിമ്മിംഗിന്റെ സാരാംശം എന്താണെന്ന് മനസിലാക്കാനും സ്കിമ്മിംഗ് വളരെ സഹായകരമാണ് ചില കണക്കുകൾ അല്ലെങ്കിൽ പേരുകൾ അല്ലെങ്കിൽ ചില തീയതികൾ അല്ലെങ്കിൽ ചില സമയം അല്ലെങ്കിൽ ചില പ്രായം അല്ലെങ്കിൽ വർഷം പോലുള്ള നിർദ്ദിഷ്ട വിവരങ്ങൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഒരു വാചകം വേഗത്തിൽ വായിക്കണമെങ്കിൽ സ്കാനിംഗ് നിങ്ങളെ സഹായിക്കും അതിനാൽ അത് വളരെ വേഗത്തിൽ ചെയ്യാൻ സ്കാനിംഗ് നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അടുത്ത പ്രധാന വായനാ സാങ്കേതികത നിങ്ങൾ വായിക്കുമ്പോൾ ക്ലസ്റ്ററിംഗിനെക്കുറിച്ചായിരുന്നു കാരണം നമ്മളിൽ ഭൂരിഭാഗവും വാക്കുകൾ വായിക്കുന്നതിലൂടെയോ അക്ഷരങ്ങൾ വായിക്കുന്നതിലൂടെയോ വളരെ വളഞ്ഞ രീതിയിൽ വായന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ശീലം കാരണം നമ്മുടെ വായന അതിവേഗം പുരോഗമിക്കാൻ അനുവദിക്കുന്നില്ല നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കാനും ഗ്രൂപ്പുകളായി വാക്കുകളെ ആകർഷിക്കാനും ശ്രമിച്ചുകൊണ്ട് ഈ ശീലത്തെ നാം ഇല്ലാതാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില ചിത്രീകരണ ഉദാഹരണങ്ങൾ നൽകിയതുപോലെ ഗ്രൂപ്പുകളായി വാക്കുകളെ ആകർഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നതെന്തും ഭാരം കുറഞ്ഞതാണോ അതോ നീളം കുറഞ്ഞതാണോ എന്ന് വേഗത്തിലും പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നിരുന്നാലും നിങ്ങൾ ശരിക്കും ഒരു പ്രൊഫഷണൽ വായനക്കാരനാകില്ല നിങ്ങൾ വായിക്കുന്ന ചില നോവലുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ചില ഗൌരവമേറിയ ദാർശനിക പുസ്തകങ്ങളിലോ അടുത്ത വായനയെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ ഏറ്റവും ശക്തമായ വായനക്കാരനാകില്ല ഏപ്രിൽ ഏറ്റവും ക്രൂരമായ മാസമാണെന്ന് ടി എലിയറ്റിന്റെ ഒരു വരിയുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതയായ വേസ്റ്റ്ലാൻഡിലെ ആദ്യ വരി ഒരു ക്ലോസ് റീഡറിനെ എന്തുകൊണ്ടാണ് ഏപ്രിലിലെ വസന്തകാലമെന്ന് സൂചിപ്പിക്കുന്നത് തുടർന്ന് എല്ലാ പൂക്കളും പൂത്തുനിൽക്കുന്ന പക്ഷികൾ എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ക്രൂരമായ മാസമാണെന്ന് അദ്ദേഹം പറയുന്നത് അതിനാൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ അവസരം നൽകുന്നു ലോകമഹായുദ്ധസമയത്ത് സംഭവിച്ച എന്തെങ്കിലും ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നും അതിന്റെ അനന്തരഫലങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ആ ഏപ്രിൽ പോലും പിന്നീട് കലർന്നുപോകുന്നു ആഗ്രഹത്തോടുകൂടിയ ഓർമ്മ എന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ മരിച്ചുപോയ ആളുകളും പിന്നീട് വേരുകളും അതിൽ നിന്ന് പുറത്തുവരുന്നു അതിനാൽ ഈ ശവസംസ്കാരവും തുടർന്ന് പുനരുത്ഥാനവും ഉണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള പ്രമേയം പുറത്തുവരുന്നു അതിനാൽ അവൻ തന്റെ കവിത ആദ്യ വാക്യത്തിൽ തന്നെ ലോഡ് ചെയ്യാൻ തുടങ്ങുന്നു 1984 ൽ ജോർജ്ജ് ഓർവെൽ അതിനാൽ നോവലിന്റെ തുടക്കത്തിൽ ക്ലോക്ക് പതിമൂന്ന് അടിക്കും ഇപ്പോൾ പന്ത്രണ്ടിന് പകരം പതിമൂന്ന് അടിക്കുന്ന പതിമൂന്ന് എന്നത് നമ്മുടെ ശ്രദ്ധയെ ഉടൻ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പന്ത്രണ്ടിന് പകരം പതിമൂന്ന് അടിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്ന് നിങ്ങൾ വാചകത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പതിമൂന്ന് സംഭവിക്കുന്നത് അവർ ഈ ക്ലോക്ക് ഉപയോഗിക്കുന്ന മാരിടൈം ആർമി സോണുകളിൽ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതിനാൽ സൈന്യം ഇത്തരത്തിലുള്ള ഘടികാരം ആദ്യ വരിയിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ മാത്രം ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു പി എം അല്ലെങ്കിൽ ഒരു എം എന്ന് പറയുന്നതിനുപകരം എന്റെ നോവലിൽ നിന്ന് സ്വേച്ഛാധിപത്യ സജ്ജീകരണം പ്രതീക്ഷിക്കുന്നത് ഏകാധിപത്യ സമൂഹത്തെക്കുറിച്ചാണെന്നും അത് പൂർണ്ണമായും സൈനിക സജ്ജീകരണത്താൽ ആധിപത്യം പുലർത്തുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണെന്നും സൂചിപ്പിക്കാൻ എഴുത്തുകാരൻ ശ്രമിക്കുന്നു ഇപ്പോൾ പതിമൂന്ന് എന്ന വാക്കിൽ അദ്ദേഹം എങ്ങനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ആന്തരികവും ആഴത്തിലുള്ളതുമായ അർത്ഥങ്ങളിലേക്ക് പോകുന്നതിന് അതിന്റെ അർത്ഥമെന്താണെന്ന് അറിയാൻ നിങ്ങൾ അടുത്ത വായന നടത്തേണ്ടതുണ്ട് വാസ്തവത്തിൽ തുടക്കത്തിൽ അടുത്ത വായന നടത്താൻ നിങ്ങൾക്ക് വായിക്കാൻ താൽപ്പര്യമുള്ള ഈ പുസ്തകങ്ങളിൽ ചിലതിൽ ലഭ്യമായ വിമർശനാത്മക വസ്തുക്കളും വായിക്കാം ഒന്നുകിൽ നിങ്ങൾ ആദ്യം വിമർശനാത്മക വസ്തുക്കൾ വായിക്കുകയും ഈ നോവലുകളിലേക്ക് പോകുകയും അല്ലെങ്കിൽ നോവലുകൾ വായിക്കുകയും തുടർന്ന് മെറ്റീരിയലുകൾ വായിക്കുകയും ചെയ്യുക അതിന്റെ അവസാനം ഞാൻ നിർദ്ദേശിച്ചത് നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ആസക്തി വളർത്തിയെടുക്കണമെങ്കിൽ അത് വായനയ്ക്കായിരിക്കണം എന്നാണ് അതിനാൽ ഇരുപത്തിനാല് മുതൽ ഏഴ് വരെ എന്തും വായിക്കുക പക്ഷേ ഒരു ദിവസത്തിൽ കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും വായിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനാൽ അത് നിങ്ങളെ ശരിക്കും അറിവുള്ള ഒരു ജ്ഞാനിയായ വ്യക്തിയായും പണ്ഡിതനായും ഉന്നത പണ്ഡിതനായും മാറ്റാൻ പോകുന്നു അതിനാൽ ഈ വായനാ ശീലം വികസിപ്പിക്കാൻ ശ്രമിക്കുക ടിവി നിങ്ങളെ സഹായിക്കില്ല അല്ലെങ്കിൽ വീഡിയോയിൽ ഒന്നും കാണുന്നത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല ഈ പ്രോഗ്രാം പോലും ഞങ്ങൾ വീഡിയോയിൽ നൽകുന്നു കാരണം ദൂരം നീക്കംചെയ്യാൻ എന്നാൽ അനുയോജ്യമായി പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പഠിക്കും അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വേഗതയിൽ അനുബന്ധ വിഷയങ്ങൾ വായിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇത് വളരെ സ്വയം ഉൾക്കൊള്ളുന്ന വീഡിയോകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലും ഇതിനുപുറമെ ഇതിൽ സംതൃപ്തരാകരുത് വായിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും വായിക്കാനുള്ള താൽപ്പര്യം വളർത്തുക ഉപസംഹാരമായി ഞാൻ അവശേഷിപ്പിച്ച അടുത്ത സുവർണ്ണ നിയമം നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്നതെന്തും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിനാൽ അത് നടുവിൽ വയ്ക്കരുത് അതിനാൽ എഴുത്ത് സംസാരം കേൾക്കൽ തുടങ്ങിയ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് സോഫ്റ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ട വളരെ അടിസ്ഥാനപരമായ നൈപുണ്യമായ വായനയാണ് വിജയത്തിനുള്ള മറ്റൊരു താക്കോൽ ഇപ്പോൾ മുമ്പത്തേതിനെക്കുറിച്ച് വളരെ കൂടുതൽ മനുഷ്യബന്ധങ്ങളിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ മൊഡ്യൂളിലേക്ക് നോക്കാം ഇവിടെ ഞാൻ മുമ്പ് ആരംഭിച്ച ചില പോയിന്റുകൾ നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മനുഷ്യബന്ധങ്ങളുടെ മറ്റ് ചില വശങ്ങൾ എടുത്തുകാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും സംഭാവന നൽകാൻ പോകുന്നത് മാനുഷിക ബന്ധങ്ങളാണെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങൾക്ക് വിജയം നൽകുന്നത് നിങ്ങളുടെ പരാജയത്തിന് സംഭാവന നൽകുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ് നിങ്ങളുടെ സന്തോഷമോ സങ്കടമോ രണ്ടും മാനുഷിക ബന്ധങ്ങളുടെ സംഭാവനയാണ് പശ്ചാത്താപമില്ലാതെ വളരെ സൌഹാർദ്ദപരമായ ജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ മാനുഷിക ബന്ധങ്ങളെ ആശ്രയിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയോ ചെയ്യുന്ന പശ്ചാത്താപമില്ലാത്ത ജീവിതം നയിക്കുക നിങ്ങളുടെ മനുഷ്യബന്ധം പരാജയപ്പെടുന്ന നിമിഷം അതിനാൽ നിങ്ങൾ വൈവാഹിക ബന്ധങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ആളുകൾ വിവാഹമോചനത്തിന് പോകുന്നു ഇപ്പോൾ മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിൽ എല്ലാം പരാജയമാണ് അതിനാൽ ഇത് നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണെന്ന് നിങ്ങൾ ഓർക്കണം നല്ല മാനുഷിക ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സുവർണ്ണ നിയമം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നതുപോലെ മറ്റുള്ളവരോട് പെരുമാറാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കണം എന്നതാണ് അതിനാൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ ബഹുമാനിക്കണം മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണം മറ്റുള്ളവർ നിങ്ങളോട് അനുകമ്പ കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുകമ്പ കാണിക്കുകയും വേണം അതിനാൽ നിർണായക സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം സഹായം നൽകണം അതിനാൽ മനുഷ്യബന്ധങ്ങളിൽ പ്രവർത്തിക്കുകയും എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്ന പരസ്പര കാരണവും ഫലവും ഇതാണ് മറ്റുള്ളവർ നിങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതേ കാര്യം തന്നെ നൽകുക ഏത് ബന്ധത്തിലും അധികാര പോരാട്ടങ്ങൾ കൊണ്ടുവരരുത് അത് ഒരു വിജയ പരാജയ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മാനുഷിക ബന്ധങ്ങളിൽ നഷ്ടമാകും നിങ്ങളുടെ ബോസിന്റെ മുൻപിൽ വിജയിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ജയിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും അത് വിവാഹമോചനത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ മകനെയോ മകളെയോ നിങ്ങൾ വീണ്ടും നേടിയെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് കൂടുതൽ ആശയവിനിമയ വിടവിലേക്കും ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും നയിച്ചേക്കാം അതിനാൽ മാനുഷിക ബന്ധങ്ങളുടെ കാര്യത്തിൽ അത് വിജയിക്കണം അതിനാൽ അധികാര പോരാട്ടങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് പവർ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ജോൺ ആസ്റ്റണിന് പറയാനുള്ളത് ഓർക്കുക പവർ എന്നത് നല്ല ഉപയോഗം ചെയ്യാനുള്ള കഴിവാണ് നിങ്ങൾ ഒരു ശക്തമായ സ്ഥാനത്താണെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാനം തന്നെ നിങ്ങൾക്ക് കുറച്ച് ശക്തി നൽകുന്നു നിങ്ങൾ ഒരു മുതിർന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ സ്ഥാനം നിങ്ങൾക്ക് അധികാരം നൽകുന്നു നിങ്ങൾ ഒരു ഭർത്താവാണെങ്കിൽ അത് നിങ്ങൾക്ക് അധികാരം നൽകുന്നു നിങ്ങൾ ഒരു ഭാര്യയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു നിങ്ങൾ ഒരു അമ്മയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ശാക്തീകരിക്കാൻ ഈ ശക്തി ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾ ശ്രേണിയുടെ ഉയർന്ന തലത്തിലാണെങ്കിൽ പിന്തുണ നൽകുന്നതിലും അവരെ ശാക്തീകരിക്കുന്നതിലും താഴ്ന്ന തലത്തിലുള്ളവരെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക പലപ്പോഴും പുരുഷ സ്ത്രീ ബന്ധത്തിന്റെ കാര്യത്തിൽ വിശ്വാസം കെട്ടിപ്പടുക്കപ്പെടുന്നില്ല അതിനാൽ അത് നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഒരിക്കൽ ഒരു പുരുഷനും സ്ത്രീയും ഞങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ ഒരേ വീട്ടിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു രഹസ്യങ്ങൾ മൊബൈൽ ഫോണുകളിൽ സൂക്ഷിക്കുന്നു അതിനാൽ ഭർത്താവിന് ഭാര്യയുടെ ഫോൺ കാണാൻ കഴിയില്ല സാമ്പത്തിക ഇടപാടുകൾ പരസ്പരം മറച്ചുവെക്കുന്നു ഇരുവർക്കും ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന പൊതുസ്ഥലത്ത് പണം സൂക്ഷിക്കുന്നില്ല നിങ്ങളുടെ പണം എന്റെ പണം വരുന്നു നിങ്ങൾ നിങ്ങളുടെ പണം അതിനായി ഉപയോഗിക്കുന്നു ഞാൻ എന്റെ പണം ഇതിനായി ഉപയോഗിക്കും ആ വിലയേറിയ സമ്മാനം വാങ്ങാൻ ഞാൻ എന്റെ പണം ഉപയോഗിക്കുമ്പോൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ് അത് ചെയ്യാൻ എന്നെ തടയാൻ നിങ്ങൾ ആരാണ് അതിനാൽ വിശ്വാസത്തിൽ സാധാരണയായി നിർമ്മിക്കേണ്ട ഒരു കാര്യമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംസാരം വരുന്നത് അതിനാൽ ഘർഷണം വരും വാസ്തവത്തിൽ ഈ ബന്ധങ്ങളിൽ വീണ്ടും ബന്ധം സുസ്ഥിരമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗ്ഗം അവർ പണത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നുവെന്നും പണത്തിൽ അവർ എങ്ങനെ സ്വതന്ത്രരാണെന്നും കാണുക എന്നതാണ് അച്ഛന്റെയോ അച്ഛന്റെ പോക്കറ്റിൽ നിന്നോ അമ്മയുടെ ഹാൻഡ്ബാഗിൽ നിന്നോ കുട്ടികൾ പണം മോഷ്ടിക്കാത്ത സ്ഥലത്ത് പണം സുരക്ഷിതമായി സൂക്ഷിക്കാമോ കുട്ടികൾ വഞ്ചിക്കുകയോ ഭാര്യ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എടിഎം പിംഗ് നൽകാൻ ഭർത്താവ് ഭയപ്പെടുന്നു ഇപ്പോൾ ഇവ വിശ്വാസത്തിൻറെ തലങ്ങളാണ് ഇപ്പോൾ ഒരിക്കൽ നിങ്ങൾക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം തുടർന്ന് നിങ്ങൾ ആദ്യം നൽകേണ്ട ഒന്നാണ് വിശ്വാസം നിങ്ങൾ വിശ്വാസയോഗ്യരായിരിക്കണം അതുവഴി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റേ വ്യക്തിയെ വിശ്വാസയോഗ്യനാക്കാനും കഴിയും ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ സംഭവിക്കണം അതിനാൽ അവർക്ക് പരസ്പരം വിശ്വസിക്കാൻ കഴിയണം മാതാപിതാക്കൾ ചില കാര്യങ്ങൾ മികച്ച ഉദ്ദേശ്യത്തോടെയാണ് ചെയ്യുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കണം കുട്ടികളും അവരുടെ കുട്ടികളും തെറ്റുകൾ ചെയ്യില്ലെന്നും അവരുടെ സംശയങ്ങൾക്കും സംശയങ്ങൾക്കും പകരം അവർ ധാർമ്മികമായി ശരിയായിരിക്കുമെന്നും മാതാപിതാക്കൾ മനസ്സിലാക്കണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിലനിർത്തേണ്ടതുണ്ട് മാനേജർമാരും തൊഴിലാളികളും മാനേജർമാരും തൊഴിലാളികളും എന്ന നിലയിൽ ഇരുവശത്തും വിശ്വാസം വളർത്തേണ്ടത് വളരെ പ്രധാനമാണ് അതോടൊപ്പം നിങ്ങൾ സമഗ്രത നിലനിർത്താനും ശ്രമിക്കണം സത്യസന്ധത എന്നത് നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മികമായി കാര്യങ്ങൾ ശരിയോ തെറ്റോ ആയി നിലനിർത്താനുള്ള നിങ്ങളുടെ കഴിവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അത് നിങ്ങളുടെ ആത്മീയ കഴിവുമായി ബന്ധപ്പെട്ടതാണ് പണം നഷ്ടപ്പെടുമ്പോഴോ സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴോ ഒന്നും നഷ്ടപ്പെടുന്നില്ലെന്ന് പറയപ്പെടുന്നു കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമ്പത്ത് വീണ്ടെടുക്കാൻ കഴിയും എന്നാൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുകയും സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഒരു കഥാപാത്രത്തെ കെട്ടിപ്പടുക്കുന്നതിനും സമഗ്രതയോടെ ആ കഥാപാത്രത്തെ കെട്ടിപ്പടുക്കുന്നതിനും അതിൽ വിശ്വാസം വളർത്തുന്നതിനും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ബന്ധം കെട്ടിപ്പടുക്കാനും തുടർന്ന് സമഗ്രതയോടും വിശ്വാസത്തോടും കൂടി അത് കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് 10 വർഷവും 20 വർഷവും 30 വർഷവും എടുക്കും എന്നാൽ നിങ്ങൾക്ക് അത് ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ കഴിയും അതിനാൽ സമഗ്രത കെട്ടിപ്പടുക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് സ്വഭാവത്തിന്റെയും തത്വങ്ങളുടെയും കാര്യത്തിൽ ധാർമ്മിക സുസ്ഥിരതയാണ് എന്നാൽ നിങ്ങൾ പിന്തുടരാത്ത എന്തെങ്കിലും ഒരിക്കലും പ്രസംഗിക്കരുത് നിങ്ങൾ വീട്ടിൽ മദ്യപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടും ഭാര്യയോടും അത് കുടിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇത് ഒരു മോശം കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ സ്വയം ചെയ്യുന്നു നിങ്ങൾ പുകവലിക്കുകയാണെങ്കിൽ നിങ്ങൾ പുകവലി നിർത്തുന്നുവെന്ന് ആരോടും പറയാൻ കഴിയില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മഹാത്മാഗാന്ധിയുമായുള്ള ഒരു സംഭവം ഞാൻ ഓർക്കുന്നു ഒരു അമ്മ ഗാന്ധിയുടെ അടുത്തേക്ക് പോയി തുടർന്ന് മകൻ വളരെയധികം മധുരപലഹാരങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനാൽ ഗാന്ധി അത് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം അത് നിർത്തുമെന്ന് അവർ പറഞ്ഞു അതിനാൽ ഗാന്ധി അവളോട് പറഞ്ഞു നിങ്ങൾക്ക് 3 ദിവസത്തിന് ശേഷം വരാമോ എന്ന് അതിനാൽ അവൾ നന്നായി പറഞ്ഞു മൂന്ന് ദിവസത്തിന് ശേഷം അവർ വന്നു തുടർന്ന് ഗാന്ധി അമിതമായ മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് നല്ലതല്ല പഞ്ചസാര അത്ര നല്ലതല്ല അപ്പോൾ മകൻ പറഞ്ഞു പക്ഷേ അമ്മ അത്ഭുതപ്പെട്ടു അവർ ഗാന്ധിജിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് 3 ദിവസം മുമ്പ് പറയാമായിരുന്നു നിങ്ങൾ ഇപ്പോൾ പറയുന്ന ലളിതമായ കാര്യം പറയാൻ ഈ 3 ദിവസത്തെ സമയം എടുത്തത് എന്തുകൊണ്ടാണ് അതിനാൽ ഗാന്ധിജി പറഞ്ഞു 3 ദിവസം മുമ്പ് എനിക്ക് മധുരപലഹാരങ്ങൾ ഇഷ്ടമായിരുന്നു എനിക്ക് മധുരപലഹാരങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ധാരാളം പഞ്ചസാര കഴിക്കുകയായിരുന്നു അദ്ദേഹത്തോട് ഇത് പറയുന്നതിനുമുമ്പ് എന്റെ കഥാപാത്രത്തെ ശക്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു ഈ മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് നിർത്താൻ എനിക്ക് കഴിയുമോ എന്ന് ശ്രമിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ കുറഞ്ഞത് 3 ദിവസമെങ്കിലും ഞാൻ പൂർണ്ണമായും നിർത്തി അത് കഴിക്കുന്നത് നിർത്തണമെന്ന് അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ധാർമ്മിക ശക്തിയും ധാർമ്മിക ശക്തിയുമുണ്ട് സമഗ്രത എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് കാണുക തത്വങ്ങളിലും സ്വഭാവത്തിലും ധാർമ്മികമായ ദൃഢതയിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പ്രസംഗിക്കാത്തപ്പോൾ എന്താണ് പരിശീലിക്കാത്തത് ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പരിശീലിക്കണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആരോടും പറയേണ്ടതില്ല അതിനാൽ നിങ്ങൾ മാതൃക വെക്കുക നിങ്ങൾ മാതൃകയായിത്തീരുക അപ്പോൾ ആളുകൾ പ്രചോദിതരാകും അതിനാൽ ഒരു ഉദാഹരണം നൽകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണിത് നിങ്ങൾ അത് വികസിപ്പിക്കാനും കെട്ടിപ്പടുക്കാനും ശ്രമിച്ചാൽ ഈ വിശ്വാസവും സമഗ്രതയും എങ്ങനെ നിലനിർത്താനാകും ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും അത് അസാധ്യമല്ല ചില മാനദണ്ഡങ്ങൾ മനസ്സിൽ വയ്ക്കുക വർഷങ്ങളായി കെട്ടിപ്പടുത്ത ഒരാളുടെ വിശ്വാസം ഒരിക്കലും തകർക്കരുത് നിങ്ങൾ ഒരു കമ്പനിയെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പിയർ ഗ്രൂപ്പുകളിലാണെങ്കിലും നിങ്ങൾ ചില സഹപ്രവർത്തകരെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി കെട്ടിപ്പടുത്ത ഒരാളുടെ വിശ്വാസം ഒരിക്കലും തകർക്കരുത് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം ആനുകൂല്യം എന്തുതന്നെയായാലും വിശ്വാസം തകർക്കാൻ അർഹതയില്ല കാരണം നിങ്ങൾ വിശ്വാസം തകർക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നശിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ നിരാശപ്പെടുത്തുക മാത്രമല്ല നിരാശപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല ആ വ്യക്തിയെ നിരാശപ്പെടുത്തുകയും ചെയ്യുക മാത്രമല്ല നിങ്ങൾ ആ വ്യക്തിയെ വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ കുറഞ്ഞു എന്ന് ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കും അത് നിങ്ങളെ കുറച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം പ്രതീക്ഷകളിൽ നിങ്ങൾ താഴുകയും ബഹുമാന നിലവാരം കുറയുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഭേദഗതികൾ വരുത്താൻ ഒരു മാർഗവുമില്ല നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ആവേശകരമായ നിമിഷങ്ങളിൽ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താതിരിക്കേണ്ടത് ആവേശത്തോടെ നിങ്ങൾ എന്തോ കൊണ്ട് ആകർഷിക്കപ്പെടുന്നു നിങ്ങൾ ഒരു വസ്ത്രം നിർമ്മിച്ച ഒരാളെ നിരാശപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓർക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ നിങ്ങളെ നിർമ്മിക്കുന്നില്ല സാഹചര്യം കാരണം ഞാൻ ഇരയായി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല സാഹചര്യം യഥാർത്ഥത്തിൽ നിങ്ങളെ വെളിപ്പെടുത്തുന്നു നിർണായക നിമിഷങ്ങളിൽ അത് നിങ്ങളിൽ ആന്തരികത കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് അഭിമുഖങ്ങളിൽ അവർക്ക് ഈ സാഹചര്യ പ്രതികരണ പരിശോധന നടത്തുന്നത് അവർ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും നിങ്ങളിൽ ഏറ്റവും മികച്ചതോ മോശമായതോ കൊണ്ടുവരാൻ കഴിയുന്ന വളരെ കഠിനമായ സാഹചര്യം അവർ സൃഷ്ടിക്കും അതിനാൽ അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാഹചര്യം നിങ്ങളെ നിർബന്ധിതരാക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത അസാധാരണമായ രീതിയിൽ സ്വയം ചോദിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ആരെയെങ്കിലും ഒറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അന്യായമായി പെരുമാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ എന്ന് സ്വയം ചോദിക്കുക തന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളോട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ന്യായീകരിക്കപ്പെടുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മുടന്തൻ ന്യായം ഉണ്ടെന്ന് ഞാൻ പറയില്ല എന്നാൽ ആ വ്യക്തി നിങ്ങളോട് ആ രീതിയിൽ പ്രതികരിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് 200 ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രതികരിക്കാൻ പോകുന്ന രീതിയിൽ ആ വ്യക്തിക്ക് ആ അർഹതയില്ലാത്ത പെരുമാറ്റം നൽകുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും അനീതിയാണ് കാണിക്കുന്നത് അത് നിങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല കാരണം ആ വ്യക്തി ആ നിമിഷം ദുർബലമായ അവസ്ഥയിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ചൂഷണം ചെയ്യുകയാണ് ഫിയോദർ ദസ്തയേവ്സ്കി ക്രൈം ആൻഡ് പനിഷ്മെൻ്റിൽ മനുഷ്യ അടിച്ചമർത്തലിനെക്കുറിചുള്ള വളരെ രസകരമായ ഒരു വെളിപ്പെടുത്തലാണിത് അതിനാൽ മറ്റൊരു ദുഷ്ടനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നിരപരാധിയുണ്ട് എന്നാൽ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന ആ നിരപരാധിയായ വ്യക്തി എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നെ മർദ്ദിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിക്കുന്നു തുടർന്ന് ഞാൻ നിസ്സഹായനാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്റെ ദുർബലമായ നിമിഷത്തിൽ താൻ എന്നെ ആക്രമിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന ചിന്ത തന്നെ ദുർബലമായ സാഹചര്യങ്ങളിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന മറ്റൊരാളെ ദോഷകരമായി ബാധിക്കുമെന്ന് രചയിതാവ് പറയുന്നു അതിനാൽ അത് മനസ്സിൽ വയ്ക്കുക മൊത്തത്തിലുള്ള മനുഷ്യപ്രകൃതി ആളുകൾ ഉദാരമതികളാകുന്നത് പോലെയാണ് ആളുകൾ കാര്യങ്ങൾ മറക്കും പക്ഷേ നിങ്ങൾ അവർക്കായി ചെയ്ത തെറ്റുകൾ അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അതിനാൽ അവർ പോലും ഒത്തുചേരുകയും തുടർന്ന് അവർ അത് തുടരുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് ചില തെറ്റുകൾ ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വിശ്വാസവും സമഗ്രതയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുടെ കാര്യത്തിൽ ജീവിതത്തിൽ വീണ്ടും ഓർക്കുക ഏതെങ്കിലും തകർന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരമില്ല അവിടെ പോലും തകർന്ന ഹൃദയങ്ങളൊഴികെ എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് എഴുതപ്പെടും അത് അവർക്കുള്ള പരസ്യമാണ് അതിനാൽ തകർന്ന ഹൃദയങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഉത്തരവാദിയാണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയില്ല കാരണം ഹൃദയം ചില ബാഹ്യ ഏജന്റുകൾ ഉപയോഗിച്ച് ശരിയാക്കാൻ കഴിയാത്ത ഒരു വൈകാരിക ഉള്ളടക്കമാണ് മനുഷ്യബന്ധങ്ങൾ വികാരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നു അപ്പോൾ വികാരങ്ങൾ നമ്മുടെ സ്വന്തം കിരണങ്ങളിലും വേലികളിലും ശരിയാക്കാനോ മാറ്റിസ്ഥാപിക്കാനോ കഴിയുന്ന വസ്തുക്കൾ പോലെയല്ല ജീവിതത്തിൽ റിവൈൻഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ ഇല്ല ഓ ഞാൻ ഇപ്പോൾ ഈ വ്യക്തിയെ വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആ നിമിഷത്തിലേക്ക് തിരികെ പോകാനും അത് വീണ്ടും മാറ്റാനും കഴിയില്ല ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനും കഴിയില്ല ഞാൻ ഭാവിയിലേക്ക് പോകും ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ തിരുത്തലുകൾ വരുത്തുന്നതെല്ലാം ഞാൻ മാറ്റും വർത്തമാനകാലം നിർണായകമാണെന്നും നിങ്ങൾ വർത്തമാനകാലത്തും ഈ നിമിഷത്തിലും ജീവിക്കാൻ പഠിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി നിങ്ങളെ സമന്വയിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ നിങ്ങളുടെ ഭൂതകാലം ഒരു പ്രശ്നവുമില്ലാതെ പോകും അത് നിങ്ങളെ പിന്തുടരില്ല നിങ്ങളുടെ ഭാവി നിങ്ങളെ ഉത്കണ്ഠയില്ലാതെ കൊണ്ടുപോകും മറ്റുള്ളവരോട് പെരുമാറുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ നിർണായകമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളുമായി ഉള്ളതും കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുമായി ഉള്ളതും നിങ്ങളിൽ പലർക്കും ഞാൻ പറയുന്ന കഥകൾ ഇഷ്ടപ്പെട്ടതിനാൽ രണ്ടോ മൂന്നോ കഥകൾ പറഞ്ഞുകൊണ്ട് ഈ മൊഡ്യൂൾ വീണ്ടും അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അവരുടെ പ്രതീക്ഷകളിൽ ധാരാളം അനുഭവപരിചയമുണ്ടെന്ന് വ്യക്തമാക്കുക എന്നതാണ് ആദ്യ കഥ അച്ഛന് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നാലാം അഞ്ചാമത്തെ ശ്രമത്തിന് ശേഷവും അദ്ദേഹത്തിന് ആകാൻ കഴിഞ്ഞില്ല അച്ഛന് ഒരു എഞ്ചിനീയറാകാൻ ആഗ്രഹമുണ്ടായിരുന്നു അച്ഛന് ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടായിരുന്നു അച്ഛന് ജെ വിജയിച്ച് അഖിലേന്ത്യാ തലത്തിൽ പത്താം നമ്പറോ മറ്റോ ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പിതാവിനോ മാതാവിനോ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കാനോ കഴിഞ്ഞില്ല അവർക്ക് അവരുടെ പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങളും നിരാശകളും ഉണ്ട് പൂർത്തീകരിക്കപ്പെടാത്ത ആ അഭിലാഷങ്ങളെയും നിരാശകളെയും അവരുടെ മക്കളുടെ മേൽ വിശ്വസിക്കാൻ അവർക്ക് അവകാശമില്ല മാത്രമല്ല അവരുടെ അഭിലാഷങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ആന്തരിക ആഗ്രഹങ്ങൾക്കും അനുസൃതമായി വളരുന്നതിനും വികസിക്കുന്നതിനും അവർ കുട്ടികളെ ഉപേക്ഷിക്കണം അതിനാൽ ഇത് അവർ ഒരു കാറിൽ പോകുന്ന അച്ഛനെയും മകനെയും കുറിച്ചുള്ളതായിരുന്നു തുടർന്ന് പിതാവ് ഈ കാറിനെ മറികടക്കാൻ ശ്രമിച്ചുവെന്ന് മകൻ പറഞ്ഞു അതിനാൽ പിതാവ് ശ്രമിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മകൻ ഇത് ഒരു ബിഎംഡബ്ല്യു പോലെയാണ് അപ്പോൾ ഞങ്ങളുടെ കാർ ഒരു ചെറിയ പഴയ മോഡൽ കാറാണ് അതിന് ഇതിനെ മറികടക്കാൻ കഴിയില്ല അച്ഛൻ ഇത് പരീക്ഷിച്ചു തുടർന്ന് അവൻ വളരെ വേഗത്തിൽ ശ്രമിക്കുന്നു തുടർന്ന് അത് ഒരു ഓഡി ആണെന്ന് അവൻ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല പിതാവേ നിങ്ങളും ഇത് പരീക്ഷിച്ചു നോക്കൂ അതിനാൽ അവർ ശ്രമിച്ചു തുടർന്ന് പിതാവ് ശ്രമിക്കുന്നു തുടർന്ന് എനിക്ക് ഇത് മറികടക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു നാല് അഞ്ച് കാറുകൾ തനിക്ക് മറികടക്കാൻ കഴിയില്ലെന്ന് മകൻ പറഞ്ഞു നിങ്ങളുടെ കാർ വേഗതയിൽ മാത്രമേ പോകാൻ കഴിയൂ എന്നും മറ്റ് കാറുകളെ മറികടക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മകൻ പിതാവിനോട് പറഞ്ഞു ഞാൻ വായിക്കുന്നതിൽ മന്ദഗതിയിലാണെന്ന് പറയുകയും നിങ്ങളുടെ അയൽവാസിയുടെ മകൻ വായിക്കുന്നതിലും കഴിവുകൾ നേടുന്നതിലും വേഗതയുള്ളവനാണെന്ന് താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അപ്പോൾ പിതാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും പിന്നീട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാൽ അത് എല്ലാ മാതാപിതാക്കൾക്കും ദൃഷ്ടാന്തമായ ഒന്നാണ് കൂടാതെ ഒരു ഘടന ജനിതക മേക്കപ്പ് പരിസ്ഥിതി എന്നിവയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കണ്ണ് തുറപ്പിക്കുന്ന കാര്യമാണ് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതും അവരെ നിരാശരാക്കുകയോ പരിഭ്രാന്തരാകുകയോ ചെയ്യാതിരിക്കുന്നതും ശരിയല്ല ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞു എന്നാൽ അടുത്തത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുള്ളതാണ് പ്രത്യേകിച്ചും അവർ മുതിർന്നവരാകുമ്പോൾ ഇത് ഒരു സോഫ്റ്റ് സ്കിൽ മാത്രമാണെന്ന് ഞാൻ പറയും അത് നിങ്ങളുടെ ഇക്യു എസ്ക്യു ലെവൽ നിർണ്ണയിക്കുകയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന എല്ലാ മാതൃകാപരമായ ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മറ്റ് നിരവധി സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വ വികസനവും നിർണ്ണയിക്കുകയും ചെയ്യും അതായത് മുതിർന്നവരോട് നിങ്ങൾ പെരുമാറുന്ന രീതി മുതിർന്ന പൌരന്മാരോട് നിങ്ങൾ പെരുമാറുന്ന രീതി നിങ്ങൾക്കുള്ള ബഹുമാനം അവരോട് നിങ്ങൾക്കുള്ള സ്നേഹം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ സത്യത്തോടുള്ള എന്റെ പരീക്ഷണം ഞാൻ വായിക്കുമ്പോൾ ഗാന്ധിജിയുടെ വ്യക്തിത്വത്തെ ബാധിച്ച ഒരു കാര്യം മുതിർന്നവരുടെ തെറ്റുകൾക്ക് അദ്ദേഹം എല്ലായ്പ്പോഴും അന്ധനായിരുന്നു മുതിർന്നവരുടെ തെറ്റുകൾക്ക് അദ്ദേഹം എല്ലായ്പ്പോഴും അന്ധനായിരുന്നു അത് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും വരുന്നു അതിനാൽ മുതിർന്നവർ ഒരു തെറ്റ് ചെയ്താൽ അവൻ അന്ധനായിരുന്നു അവൻ പരാതിപ്പെട്ടില്ല അവൻ അവരെ ചൂണ്ടിക്കാണിക്കുക പോലും ചെയ്തില്ല എന്നാൽ ഇന്നത്തെ ലോകത്ത് നിങ്ങൾക്കറിയാം അതിനാൽ എല്ലാവരും പരസ്പരം മത്സരിക്കുന്നു ഒരു മുതിർന്നയാൾ മോശം ഓർമ്മയിൽ നിന്ന് തെറ്റ് ചെയ്താലും അതിനാൽ ചുറ്റുമുള്ള ആളുകളുടെ കോപം അവർ വളരെ ദേഷ്യപ്പെടുന്നു അവർ ദേഷ്യപ്പെടുന്നു അവർ ആ വ്യക്തിയോട് നിലവിളിക്കുന്നു അവർ ആ വ്യക്തിയെ വളരെ അസ്വസ്ഥനാക്കുന്നു ആ ചെക്കിൽ ശരിയായി ഒപ്പിടാൻ കഴിയാത്തതിനും പേന പിടിക്കാൻ കഴിയാത്തതിനും മകൾ വളരെ ദേഷ്യപ്പെടുകയും അമ്മയോട് നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു കഥ ഞാൻ വീണ്ടും ഓർക്കുന്നു അതിനാൽ അമ്മ ചോദിക്കുന്നു നിനക്ക് എന്റെ കൈ പിടിക്കാമോ അങ്ങനെ എനിക്ക് ഒപ്പിടാൻ കഴിയും മകൾ ദേഷ്യപ്പെട്ടു എനിക്ക് എത്ര തവണ അത് ചെയ്യണം നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നിട്ട് അമ്മ വിനയത്തോടെ പറയുന്നു നീ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല നൂറുകണക്കിന് തവണ ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല അതിനാൽ പലപ്പോഴും കുട്ടികളെപ്പോലെ അവർ സ്വതന്ത്രരാകുന്ന ഒരു തലത്തിലെത്തുമ്പോൾ സ്വന്തം മാതാപിതാക്കളാൽ പരിശീലിപ്പിക്കപ്പെട്ടതെങ്ങനെയെന്ന് അവർ മറക്കുന്നു അവർ അവരുടെ മാതാപിതാക്കളേക്കാൾ വളരെ ജനപ്രിയരും വിജയികളുമായിത്തീരുമ്പോൾ അവരുടെ മാതാപിതാക്കളേക്കാൾ പത്തിരട്ടി പണം സമ്പാദിക്കാൻ കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കളേക്കാൾ നൂറിരട്ടി പ്രശസ്തി അപ്പോൾ ചിലപ്പോൾ അഹങ്കാരത്തിന്റെ അഹങ്കാരം അവർക്ക് വരുന്നു ഇത് വളരെ അഹങ്കാരിയായിത്തീർന്ന അത്തരമൊരു മകന്റെ കഥയാണ് തുടർന്ന് അവൻ തൻ്റെ പിതാവിനേക്കാൾ വളരെ നന്നായി ചെയ്തുവെന്നും തൻ്റെ പിതാവ് തൻ്റെ മകൻ്റെ കാരുണ്യത്തിലാണെന്ന് മനസ്സിലാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അതിനാൽ അച്ഛനെ അകത്തേക്ക് വരാനും ഇടയ്ക്കിടെ ഇരിക്കാനും പോലും അദ്ദേഹം അനുവദിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തെ കൂടുതലും തന്റെ വലിയ ആഡംബര ബംഗ്ലാവിന് പുറത്ത് പാർപ്പിച്ചു അവിടെ അദ്ദേഹം ഉറങ്ങുകയും തണുപ്പിൽ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട് അവന് ഒരു വളർത്തുമൃഗമുണ്ടായിരുന്നു നായയെയും അച്ഛന്റെ അരികിൽ കെട്ടിയിട്ടിരുന്നു അവൻ ആദ്യം നായയ്ക്ക് ഭക്ഷണം നൽകും നായ ഭക്ഷണം കഴിച്ച് തീർക്കും തുടർന്ന് അതേ പ്ലേറ്റ് എടുത്ത് അച്ഛന് ഭക്ഷണം നൽകുന്നു അപമാനിക്കാൻ കഴിയുമെന്ന് കാണിക്കാൻ മാത്രമാണ് അവൻ അത് നൽകുന്നത് തുടർന്ന് അച്ഛന് ഇപ്പോൾ അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അച്ഛൻ ഒന്നും പറഞ്ഞില്ല അതിനാൽ അവൻ ഒരു ദുർബലമായ അവസ്ഥയിലായതിനാൽ ഭക്ഷണം നൽകാൻ ആരും ഇല്ലാതിരുന്നതിനാൽ അവൻ അത് കഴിക്കുകയായിരുന്നു പിതാവ് വരുമ്പോഴെല്ലാം കൊച്ചുമകൻ ഇത് കാണുകയും നായയ്ക്ക് ഭക്ഷണം നൽകുകയും അതേ പ്ലേറ്റ് ഉപയോഗിക്കുകയും തുടർന്ന് പിതാവിന് ഭക്ഷണം നൽകുകയും തുടർന്ന് പിതാവിന് നൽകുകയും ചെയ്യും ഒരു ദിവസം അവൻ പുറത്തുവന്ന് പിതാവ് മരിച്ചുവെന്ന് കണ്ടു അതിനാൽ അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അവർ എല്ലാ അന്ത്യകർമങ്ങളും നടത്തി തുടർന്ന് അവൻ വീട്ടിലേക്ക് മടങ്ങി അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പിന്നെ എല്ലാം വൃത്തിയാക്കുകയായിരുന്നു തുടർന്ന് നായയ്ക്ക് വേണ്ടി വന്നു തുടർന്ന് അവൻ നായയ്ക്ക് ഒരു പുതിയ പ്ലേറ്റ് സൂക്ഷിച്ചു തുടർന്ന് അവൻ പഴയ പ്ലേറ്റ് എറിയാൻ പോകുകയായിരുന്നു ആ സമയത്ത് മകൻ വന്നു നായ കഴിക്കുന്ന പഴയ പ്ലേറ്റ് എടുത്തു തന്റെ മുത്തച്ഛനും ഉപയോഗിച്ചിരുന്ന അതേ പ്ലേറ്റ് അതിനാൽ അവൻ അത് എടുത്തു എന്നിട്ട് അത് തന്നോടൊപ്പം സൂക്ഷിക്കാൻ ആഗ്രഹിച്ചു പിതാവ് ആശ്ചര്യപ്പെട്ടു തുടർന്ന് എന്തിനാണ് ഈ പ്ലേറ്റ് എടുക്കുന്നതെന്ന് അദ്ദേഹം മകനോട് ചോദിച്ചു ഇത് ഒരു ഉപയോഗശൂന്യമായ പ്ലേറ്റാണ് അപ്പോൾ മകൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞാൻ ഇതില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം നൽകും ഈ പ്ലേറ്റ് ഉപയോഗിച്ചല്ലേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് പിന്നീടുള്ള ഘട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന കഥയുടെ ധാർമ്മികത നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിതാവിനെ അപമാനിച്ച മകന്റെ കാര്യത്തിൽ മൂത്തവരോട് നിങ്ങൾ പെരുമാറേണ്ട രീതി ഇതാണ് എന്ന് ചെറുമകനായ മകൻ യഥാർത്ഥത്തിൽ കരുതുകയും അദ്ദേഹം അത് പിതാവിൽ നിന്ന് പഠിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഭക്ഷണം നൽകാൻ നായ കഴിക്കുന്ന അതേ പ്ലേറ്റ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം കരുതി അത് തൻ്റെ പിതാവിനോടും ചെയ്യണമെന്ന് അദ്ദേഹം കരുതുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്ത ഈ മായാത്ത അടയാളം നിങ്ങളുടെ പെരുമാറ്റം നോക്കുന്നതിലൂടെ കുട്ടി ചിന്തിക്കുന്നത് മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും കുട്ടി അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് മാറ്റാൻ പോകുന്നില്ല ഈ കോഴ്സിന്റെ സമാപന ചിന്തകളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് മറ്റൊരു രസകരമായ കഥ പറയാം വീണ്ടും ഒരു ധനികനായ ആഡംബര ബിസിനസുകാരൻ തൻ്റെ പിതാവിനെ ഒരു പഴയ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ വരുന്ന സാഹചര്യമാണിത് കാരണം ഭാര്യ അവനെ പീഡിപ്പിക്കുകയും ഭാര്യ പിതാവിനെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നു അവർക്ക് മതിയായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നിരവധി കലഹങ്ങൾ ഉണ്ടായി തനിക്ക് എവിടെയെങ്കിലും പോയാൽ നന്നായിരിക്കുമെന്ന് പിതാവ് തന്നെ കരുതി അപ്പോൾ അദ്ദേഹം മകനോട് നിർദ്ദേശിച്ചു മകനും പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളെ ഈ അനാഥാലയത്തിൽ പാർപ്പിക്കും പക്ഷേ ഞാൻ നിങ്ങളുടെ മകനാണെന്ന് അബദ്ധത്തിൽ അവരോട് പറയരുത് അതിനാൽ അപ്പോൾ ആളുകൾ കരുതും ഞാൻ അത്തരമൊരു ധനികനാണെന്ന് അത് എനിക്ക് മോശം പ്രശസ്തി സൃഷ്ടിക്കും അതേ സമയം നിങ്ങൾ അവിടെ പോകുമ്പോൾ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് തിരികെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനാണെന്ന് നിങ്ങൾ അവരോട് പറയുകയും തുടർന്ന് നിങ്ങളെ മറ്റുള്ളവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഒരു അനാഥനാണ് അതുകൊണ്ട് അച്ഛൻ ഒന്നും കാര്യമാക്കിയില്ല നീ എന്നെ അവരുടെ വീട്ടിലേക്കെങ്കിലും വിടൂ എന്ന് പറഞ്ഞു അതിനാൽ മകൻ വരുന്നു തുടർന്ന് അവൻ തന്റെ തുണിയുടെ ഒന്നോ രണ്ടോ ബാഗുകൾ എടുക്കുന്നു ഭാര്യയിൽ നിന്ന് ഫോൺ കോൾ വരുന്നു നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതിനാൽ വേഗം തിരിച്ചുവരിക നമുക്ക് ഒരു സിനിമയ്ക്ക് പോകണം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് നടത്തണം അതിനാൽ ആ വൃദ്ധനെ ഉപേക്ഷിച്ച് വേഗത്തിൽ വരിക അതിനാൽ അവൻ പോയി തുടർന്ന് പിതാവ് അകത്തേക്ക് പോയി തുടർന്ന് പോകുമ്പോൾ പിതാവിനെ ആ അനാഥാലയത്തിന്റെ ഉടമ സ്പർശിച്ചു തുടർന്ന് അയാൾ അദ്ദേഹത്തെ വളരെ മനോഹരമായി അഭിവാദ്യം ചെയ്തു ആ അനാഥാലയ ഉടമ അവർ വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളാണെന്നപോലെ അവനോട് സംസാരിക്കുകയായിരുന്നു അതിനാൽ മകൻ ബാഗേജ് എടുക്കുകയായിരുന്നു തുടർന്ന് അവൻ പോയി അത് സൂക്ഷിക്കുകയും പുറത്തേക്ക് വരികയും ചെയ്തു അപ്പോൾ ഈ അനാഥാലയ ഉടമ തന്റെ പിതാവിനെ എങ്ങനെ അറിയുമെന്ന് അയാൾക്ക് ജിജ്ഞാസയുണ്ടായി അതിനാൽ അദ്ദേഹം പോയി സാറിനെപ്പോലെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ വ്യക്തിയെ എങ്ങനെ അറിയാം തുടർന്ന് നിങ്ങളുടെ ബന്ധവും അതെല്ലാം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു അത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു താൻ യഥാർത്ഥത്തിൽ തൻ്റെ പിതാവാണെന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ മറ്റേയാൾ പറഞ്ഞു അതിനാൽ അത് എന്തുതന്നെയായാലും നിങ്ങൾ ഇത് ചോദിച്ചതിനാൽ ഈ വ്യക്തി ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിച്ചതിനാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ വ്യക്തി ഏകദേശം 40 വർഷം മുമ്പ് വന്നു തുടർന്ന് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല അദ്ദേഹം തന്റെ ഏക മകനായി വളരുന്നതിനായി ഈ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്തു തുടർന്ന് അവനെ വളരെയധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി വളർത്തി ആ മകന് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്ന് അദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചു അതിനാൽ ആ മകൻ യഥാർത്ഥത്തിൽ ഒരു അനാഥയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് പിതാവ് ഈ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുപോയി മകൻ വളർന്നു പിന്നീട് അഹങ്കാരിയും ക്രൂരനുമായി തനിക്ക് ഇത്തരത്തിലുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കാമെന്ന് പോലും അവൻ തിരിച്ചറിഞ്ഞില്ല തുടർന്ന് അവൻ വന്ന് ഈ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ പോകുന്നു അതിനാൽ മറ്റുള്ളവരോട് പെരുമാറുന്ന കഥകൾ മാത്രമാണ് ഇവ പ്രത്യേകിച്ച് നിങ്ങൾ മുതിർന്നവരോട് പെരുമാറുകയാണെങ്കിൽ അവരെ ബഹുമാനിക്കാനും അവർ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ബഹുമാനം നൽകാനും ശ്രമിക്കുക ഇപ്പോൾ ഒരു സമാപന ചിന്ത എന്ന നിലയിൽ മുഴുവൻ കോഴ്സും സംഗ്രഹിക്കുന്നതിനുപകരം ഞാൻ വളരെ പ്രശസ്തനായ ഒരു കവിയുടെ ഒരു കവിത വായിക്കാൻ ഞാൻ കരുതുന്നു തുടർന്ന് ആദ്യം അത് വേഗത്തിൽ വായിക്കാൻ അനുവദിക്കുകയും തുടർന്ന് നിങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യാം ഇത് ഈ 48 പ്രഭാഷണങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നതിന്റെ ഒരു സംഗ്രഹമാണ് ഇതാണ് എന്റെ സമാപന ചിന്തകൾ ഈ കവിതയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ കോഴ്സ് ഫലപ്രദമായി പഠിപ്പിച്ചു എന്നതാണ് ഞാൻ കവിത വായിക്കട്ടെ തുടർന്ന് ഞാൻ ഇത് നിങ്ങളോട് വിശദീകരിക്കട്ടെ നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങും നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങും നിങ്ങൾ സ്വയം കൊല്ലുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ അനുവദിക്കാത്തപ്പോൾ നിങ്ങൾ ഒരേ പാതയിലൂടെ എല്ലാ ദിവസവും നടക്കുന്ന നിങ്ങളുടെ ശീലങ്ങളുടെ അടിമയായിത്തീർന്നാൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങും നിങ്ങൾ വ്യത്യസ്ത നിറങ്ങൾ ധരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തവരുമായി സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങും ഞാൻ വേഗത്തിൽ നിങ്ങളോട് വിശദീകരിക്കട്ടെ അത് നമ്മുടെ സ്വന്തം ഗതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ക്രമേണ മരിക്കുന്നു നിങ്ങൾ പുറത്ത് പോയി വ്യത്യസ്ത ആളുകളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ഉപയോഗശൂന്യമാകും അതിനാൽ ജീവിതത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായും നിങ്ങളുടെ മസ്തിഷ്ക മരണത്തിന് തുല്യമാണ് അതിനാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാലും നിങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയാത്തതിനാലും നിങ്ങൾ എല്ലായ്പ്പോഴും ആരോടെങ്കിലും അസൂയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മാഭിമാനം കുറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സ്വയം വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൌഹൃദത്തിൽ നിന്ന് വരുന്ന ജീവിതശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രായമായവരിൽ നിന്ന് പോലും പക്ഷികളുടെ അന്തരീക്ഷത്തിൽ നിന്ന് ജീവന്റെ ശബ്ദങ്ങൾ വരുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ അനുവദിക്കാത്തപ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം കൊല്ലുമ്പോൾ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങുന്നു അതിനാൽ സഹായം സ്വീകരിക്കുന്നതിലൂടെ ഇത് ഒരു ബലഹീനതയാണെന്ന് ചിന്തിക്കുന്നതിനുപകരം ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ട് നിങ്ങളെ സുഖപ്പെടുത്താൻ നിങ്ങൾ അവരെ സഹായിക്കുകയും നിങ്ങളുടെ ശീലങ്ങളുടെ അടിമയാകുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ അവരെ ശാക്തീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരാഴ്ചത്തെ മുഴുവൻ മൊഡ്യൂളും ഞങ്ങളുടെ ശീലങ്ങളുടെ യൂണിറ്റിലേക്ക് പോകുക അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോശം ശീലങ്ങൾ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടിമകളാകുകയും ഒരേ പാതയിൽ ദിവസവും നടക്കുകയും ചെയ്യും നിങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങൾ വ്യത്യസ്ത നിറങ്ങൾ ധരിച്ചില്ലെങ്കിൽ വ്യത്യസ്ത നിറങ്ങൾ ധരിക്കുക എന്നതിനർത്ഥം വസ്ത്രം ധരിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്ത അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവരുമായി സംസാരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് അതിനാൽ ചില ആളുകൾ മാനുഷിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഭയപ്പെടുന്നു പ്രക്ഷുബ്ധമായ വികാരങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് ഭയന്ന് ചില ആളുകൾ ബന്ധങ്ങൾ ഒഴിവാക്കുന്നു അതിനാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നവ അദ്ദേഹം വീണ്ടും പറയുന്നു അതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖത്തെ ജീവിതത്തിന്റെ സാധാരണ ഭാഗമായി എടുക്കേണ്ടിവരും നിങ്ങളുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മരിക്കാൻ തുടങ്ങും അതിനാൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലിയിലോ ജീവിതത്തിലോ നിങ്ങൾ സംതൃപ്തരല്ലാത്തപ്പോൾ നിങ്ങൾ ജീവിതം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കണം അതിനാൽ നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്തതും നിരാശയുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ സുഖകരമായ മേഖലയിലായിരിക്കുമെന്നും നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഉറപ്പില്ലാത്ത ഭയത്തിന് സുരക്ഷിതമായത് നിങ്ങൾ അപകടത്തിലാക്കുന്നില്ലെങ്കിൽ അത് മാറ്റേണ്ട സമയമാണിത് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വിവേകപൂർണ്ണമായ ഉപദേശം മാതാപിതാക്കൾ നൽകുന്ന ഉപദേശം അധ്യാപകർ നൽകുന്ന ഉപദേശം മേലധികാരികൾ നൽകുന്ന ഉപദേശം എന്നിവയിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതെന്തും ഒരു സ്വപ്നത്തിന് ശേഷം പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രമേണ മരിക്കും അതിനാൽ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ധാരാളം ആളുകൾ ഉണ്ട് എന്നാൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും ബാധകമായ എന്തെങ്കിലും ചിന്തിക്കാനും അത്തരം ഉപദേശം ഒഴിവാക്കാനും നിങ്ങളുടെ സ്വന്തം ജീവിതം നയിക്കാൻ ശ്രമിക്കാനും നിങ്ങൾക്ക് കഴിയണം അതിനാൽ നിങ്ങൾക്ക് പതുക്കെ മരിക്കണോ അതോ വളരെ വേഗതയേറിയ ജീവിതത്തിൽ സജീവമായും കർക്കശമായും ജീവിക്കണോ എന്ന ചിന്തയോടെ ഞാൻ നിങ്ങളെ വിടുന്നു അതിനാൽ ആദ്യത്തേത് മുതൽ അവസാനത്തേത് വരെയുള്ള നമ്മുടെ പാഠങ്ങൾ വീണ്ടും പരിശോധിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഈ കവിത ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതെന്തും വളരെ ഉചിതമായി സംഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മുഴുവൻ കോഴ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പൂർത്തിയാക്കിയ ശേഷം ആരംഭിക്കുന്ന അടുത്ത കോഴ്സിൽ ചേരാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വർദ്ധിപ്പിക്കുന്ന ഉയർന്ന തലത്തിലായിരിക്കും അതിനാൽ നിങ്ങൾ ഇപ്പോൾ വികസിച്ചു പക്ഷേ നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ വളരെ പ്രൊഫഷണൽ തലത്തിലും അത് ചെയ്യാൻ ആ കോഴ്സ് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോകളെല്ലാം കണ്ടതിന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾ വളരെ ക്ഷമയോടെ വളരെ സജീവമായി പങ്കെടുക്കുകയും ഈ പ്രഭാഷണങ്ങളെല്ലാം വളരെ രസകരവും വളരെ ഉപയോഗപ്രദവുമായ രീതിയിൽ ചെയ്യാൻ നിങ്ങൾ എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്തു നിങ്ങളുടെ പ്രതികരണത്തിന് വളരെ നന്ദി നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ നിങ്ങളുടെ പ്രതികരണവും നിങ്ങൾക്ക് അയയ്ക്കാം അതിനാൽ നിങ്ങൾ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴെല്ലാം ഈ പ്രഭാഷണങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എഴുതുന്നത് തുടരാൻ സഹായിക്കുന്ന ചില പ്രത്യേക പ്രഭാഷണങ്ങൾ നോക്കുക സാധ്യമായ ഏത് രൂപത്തിലും ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു ഈ വീഡിയോകളെല്ലാം കണ്ടതിന് നന്ദി പ്രത്യേകിച്ചും ഈ വീഡിയോ അടുത്ത കോഴ്സിൽ അടുത്ത പ്രഭാഷണത്തിൽ കാണാം വീണ്ടും നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു